ഹലോ ഈ മാനുഫാക്ചറിംഗ് സിസ്റ്റംസ് ടെക്നോളജി പാർട്ട് രണ്ട് മൊഡ്യൂളിലേക്ക് സ്വാഗതം നമ്മൾ ഉൽപ്പന്ന രൂപകൽപ്പനയിലും പ്രക്രിയയിലും ഗുണനിലവാരം എങ്ങനെ അവതരിപ്പിക്കാം എന്നതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഡിസൈൻ ഘട്ടങ്ങൾ തന്നെ നിങ്ങൾക്കറിയാമെന്ന് നമ്മൾക്കറിയാവുന്നതുപോലെ നമ്മൾ ചർച്ച ചെയ്തത് അതാണ് ഒരു ഉൽപ്പന്നം സാക്ഷാത്കരിക്കുന്ന പ്രക്രിയയിലെ പ്രധാന പ്രവർത്തനമാണ് ഉൽപ്പന്ന രൂപകൽപ്പന അതിനാൽ ഇത് ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു വാസ്തവത്തിൽ ഇത് നിങ്ങൾക്കറിയാവുന്ന ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തുന്നു രൂപകൽപ്പന തികച്ചും കരുത്തുറ്റതാണ് അപ്പോൾ പ്രക്രിയയിലും ഉൽപ്പന്ന തലത്തിലും വളരെ കുറഞ്ഞ പൊരുത്തക്കേട് അനുവദിക്കാൻ ഇതിന് കഴിയും അതിനാൽ ഗുണനിലവാരം നഷ്ടപ്പെടുന്നത് ശരിക്കും സംഭവിക്കുന്നു ടാർഗെറ്റിൽ നിന്ന് ഉൽപ്പന്നത്തിന്റെ പ്രവർത്തന സവിശേഷതകളുടെ വ്യതിയാനം ഉണ്ടാകുമ്പോൾ മൂല്യങ്ങൾ ഈ ഫംഗ്ഷണൽ സ്വഭാവസവിശേഷതകൾ എത്രമാത്രം തിരഞ്ഞെടുക്കുന്നു എന്നതിനെക്കുറിച്ച് ഡിസൈൻ പ്രശ്നങ്ങൾ അലവൻസ് പ്രവർത്തനപരമായ സ്വഭാവസവിശേഷതകളിൽ ഒരു ടോളറൻസ് നൽകാം അല്ലെങ്കിൽ ഉപഭോക്താവിന്റെ ആവശ്യം ഇത് രൂപകൽപ്പനയുടെ അടിസ്ഥാനത്തിൽ വിവർത്തനം ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിരിക്കണം പ്രത്യേക ഉൽപ്പന്നത്തിന്റെ രൂപകൽപ്പന അതിനാൽ ടാഗുച്ചി മാറ്റിയ ഉൽപ്പന്ന രൂപകൽപ്പന തരത്തിന്റെ തത്ത്വചിന്ത നിങ്ങൾക്കറിയാം ഉൽപ്പന്നങ്ങളിലേക്ക് ഗുണനിലവാരം രൂപകൽപ്പന ചെയ്യുന്നതിനുള്ള ഒരു തത്ത്വചിന്തയും രീതിശാസ്ത്രവും അദ്ദേഹം നിർദ്ദേശിച്ചു പ്രക്രിയകൾ അതിനാൽ നിങ്ങൾ ജെനിചി ടാഗുച്ചി യഥാർത്ഥത്തിൽ ഒരു പരിശീലനത്തിലൂടെ ടെയിൽ എഞ്ചിനീയറായിരുന്നു എന്നാൽ ജപ്പാനിലെ നിങ്ങൾക്ക് അറിയാവുന്ന ഇലക്ട്രിക്കൽ കോർപ്പറേഷൻ ഇസിഎല്ലിനായി അദ്ദേഹം പ്രവർത്തിക്കുന്നു നിങ്ങൾക്കറിയാം യഥാർത്ഥത്തിൽ പരിവർത്തനം ചെയ്ത സ്റ്റാറ്റിസ്റ്റിഷ്യനായ നിങ്ങളാണ് അദ്ദേഹം ചിലത് വികസിപ്പിക്കാൻ ശ്രമിച്ചു വിശകലനത്തിനായി ഗുണനിലവാരം നടത്തുന്നതിനുള്ള രീതികൾ മുതലായവ പിന്നീട് അദ്ദേഹത്തിന്റെ രീതി വളരെ പ്രചാരത്തിലുണ്ട് പടിഞ്ഞാറൻ നിങ്ങൾക്കറിയാമോ അദ്ദേഹത്തിന് പലർക്കും ഉപദേശക പദവി നൽകാമെന്ന് ബെൽ ലാബുകൾ ബോയിംഗ് സിറോക്സ് എന്നിവയുൾപ്പെടെ ദീർഘകാലത്തേക്ക് കമ്പനി അതിനാൽ ടാഗുച്ചി അടിസ്ഥാനപരമായി രൂപകൽപ്പന ചെയ്തതിന്റെ ആദ്യ വക്താവായിരുന്നു ഒരു ഗുണപരമായി നിർമ്മിക്കാൻ കഴിയുക രീതി അല്ലെങ്കിൽ ഗുണപരമായ രീതിയിൽ നിർമ്മിച്ച ഡിസൈൻ ഉൽപ്പന്ന രൂപകൽപ്പനയെ നിങ്ങൾക്ക് വിശ്വസിക്കാം അതുകൊണ്ട് അവൻ ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു പ്രക്രിയ രൂപകൽപ്പന ചെയ്യുന്ന പ്രക്രിയയെ മൂന്നായി കാണണമെന്ന് പോസ്റ്റുലേറ്റ് ചെയ്യുന്നു ഘട്ടം ഒന്ന് സിസ്റ്റം തലത്തിലുള്ള രൂപകൽപ്പനയാണ് തുടർന്ന് പാരാമീറ്റർ ഡിസൈൻ ലെവലിന്റെ രൂപകൽപ്പന അല്ലെങ്കിൽ പാരാമീറ്ററുകൾ ലെവലിന്റെ രൂപകൽപ്പനയും ഒടുവിൽ രൂപകൽപ്പനയും സഹിഷ്ണുത ആയിരിക്കേണ്ട പാരാമീറ്ററുകൾ അതിനാൽ എങ്ങനെ ചെയ്യാമെന്ന ചിന്താ പ്രക്രിയ അദ്ദേഹം അടിസ്ഥാനപരമായി സംഘടിപ്പിക്കുന്നു ഒരു പ്രത്യേക രൂപകൽപ്പനയിലെ ഡിസൈൻ മാറ്റവുമായി സംയോജിപ്പിച്ചു സിസ്റ്റം രൂപകൽപ്പനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് നിങ്ങൾക്കറിയാമെന്ന് അദ്ദേഹം അർത്ഥമാക്കുമ്പോൾ അത് പ്രക്രിയയാണ് ഒരു അടിസ്ഥാന ഫംഗ്ഷണൽ പ്രോട്ടോടൈപ്പ് ഡിസൈൻ നിർമ്മിക്കുന്നതിന് ശാസ്ത്രീയ അറിവ് പ്രയോഗിക്കുന്നതിനുള്ള ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുതിയതോ മെച്ചപ്പെട്ടതോ ആയ ആശയങ്ങൾ നൽകുന്നതിനായി ആശയങ്ങളും രീതികളും സമന്വയിപ്പിച്ചിരിക്കുന്നു ഉപഭോക്താവിന്റെ ഉൽപ്പന്നങ്ങൾ അതായത് അടിസ്ഥാന ഡിസൈൻ ആശയം ഈ സമയത്ത് സ്ഥാപിച്ചു ഭാഗങ്ങൾ മെറ്റീരിയലുകൾ ഉപസെംബ്ലികൾ എന്നിവ തിരഞ്ഞെടുക്കുന്നതുൾപ്പെടെയുള്ള ഘട്ടം പുറത്തേക്ക് ഉദാഹരണത്തിന് ഒരു ഓട്ടോമോട്ടീവ് അസംബ്ലിയുമായി ബന്ധപ്പെട്ട ഇനിപ്പറയുന്ന ചോദ്യം പറയട്ടെ ഡിസൈൻ ലെവൽ സിസ്റ്റത്തിൽ നന്നായി അഭിസംബോധന ചെയ്യണം ഉദാഹരണത്തിന് ഒരാൾക്ക് അത് ചെയ്യണം ആന്തരിക ജ്വലന എഞ്ചിൻ അലുമിനിയം അല്ലെങ്കിൽ കാസ്റ്റ് ഇരുമ്പ് ഉപയോഗിച്ച് നിർമ്മിക്കുന്നു നിങ്ങൾക്ക് അറിയാവുന്ന ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റത്തിന്റെ ഈ അധിക സുരക്ഷ ഉള്ളതിനാൽ ഇത് ഉപയോഗിച്ച അടിസ്ഥാന മെറ്റീരിയലുകളുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഉപയോഗിച്ച ഉപ അസംബ്ലികൾ രൂപകൽപ്പനയിൽ ഈ സിസ്റ്റം രൂപകൽപ്പനയിൽ ലെവലിൽ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട് ഒപ്പം ബന്ധം ഇൻപുട്ടുകൾക്കും ഔട്ട്പുട്ടുകൾക്കുമിടയിൽ ഈ രീതിയിൽ സ്ഥാപിക്കപ്പെടുന്നു കൂടാതെ ഫംഗ്ഷനുകളും സിസ്റ്റം ഡിസൈൻ ലെവൽ കഴിഞ്ഞാൽ ഭാഗങ്ങളും സബ്സിസ്റ്റങ്ങളും നിർണ്ണയിക്കപ്പെടുന്നു നിങ്ങൾക്ക് ഒരു ആസൂത്രണം അറിയാവുന്ന ഗുണനിലവാരത്തിലാണ് ചോദ്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നത് അതിനാൽ അടുത്ത ഘട്ടം വ്യക്തമായും പരാമീറ്ററുകളുടെ രൂപകൽപ്പനയാണ് അതിനാൽ വ്യക്തമായും പേര് പോലെ സിസ്റ്റം നിർമ്മിക്കുന്നതിനായി ഉൽപ്പന്ന പ്രോസസ്സ് ഡിസൈൻ പാരാമീറ്ററുകൾ സജ്ജമാക്കിയിരിക്കുന്ന ലെവൽ നിർദ്ദേശിക്കുക പ്രകടനം വ്യതിയാനത്തിന്റെ കാരണങ്ങളോട് കുറഞ്ഞ സെൻസിറ്റീവ് ആയതിനാൽ ഗുണനിലവാര നഷ്ടം കുറയ്ക്കുന്നു അതിനാൽ എഞ്ചിനുകളുടെ കാര്യത്തിൽ ഒരു ബിഎച്ച്പി അല്ലെങ്കിൽ അടിസ്ഥാന പാരാമീറ്ററുകൾ തിരഞ്ഞെടുക്കുക എഞ്ചിൻ ആർപിഎം വളരെ നല്ല പാരാമീറ്ററാണ് അതിനാൽ അവിടെ പാരാമീറ്ററുകൾ തിരഞ്ഞെടുക്കുക പാരാമീറ്ററിലെ ഏറ്റവും ചെറിയ വ്യതിയാനങ്ങളും പ്രത്യേക എഞ്ചിന്റെ ശേഷിയുമാണ് പാരാമെട്രിക് ഒരു പ്രോപ്പർട്ടി ഡെലിവറി ചെയ്യുന്നതിനായി എല്ലായ്പ്പോഴും സൂക്ഷിക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രകടനമായിരിക്കാം പാരാമെട്രിക് എല്ലായ്പ്പോഴും ഓവർ സൈഡിൽ അല്പം മാത്രം സൂക്ഷിക്കണം അങ്ങനെ എല്ലായ്പ്പോഴും അവിടെയുണ്ട് പ്രകടന അളവുകൾക്ക് അനുസൃതമാണ് ഒരു സാഹചര്യം ഉണ്ടാകരുത് അതിർത്തി രേഖയിലെ അളവുകൾക്കും ഉൽപ്പന്നത്തിനും മിക്ക അളവുകളും നേടാൻ കഴിയില്ല കേസുകൾ അതിനാൽ പ്രകടന അളവുകൾ ഒരു രീതിയിൽ ആസൂത്രണം ചെയ്യുക അങ്ങനെ ശേഷി അല്ലെങ്കിൽ പരിധിക്കുള്ളിൽ ഉൽപ്പന്നത്തിന്റെ അളവുകൾ എവിടെയോ സ്ഥിതിചെയ്യുന്നു പാരാമീറ്ററുകളിൽ ശബ്ദ ഘടകങ്ങളെ വിശാലമായ സഹിഷ്ണുത കുറയ്ക്കാൻ അനുവദിക്കുമെന്ന് അനുമാനിക്കുന്നു ശബ്ദ ഘടകങ്ങൾ നിയന്ത്രിക്കുന്നതിന് ചെലവേറിയതിനാൽ നിർമ്മാണ ചെലവ് അതിനാൽ വ്യക്തമായും പാരാമീറ്ററുകൾ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് നിയന്ത്രണമില്ലാത്ത ഈ ഘടകങ്ങളെ ഡിസൈൻ ഘട്ടം കണക്കാക്കണം നോൺ കോൺഫോർമൻസിന് കാരണമാകുന്ന ഘടകം ഇവയെ ശബ്ദം എന്നും വിളിക്കുന്നു ഘടകം നിങ്ങൾ ഈ പ്രക്രിയയിൽ രൂപകൽപ്പന ചെയ്യണം അങ്ങനെ ഈ ശബ്ദ ഘടകങ്ങൾ അഭിസംബോധന ചെയ്യുകയും വളരെ കർശനമായ നിയന്ത്രണം സൂക്ഷിക്കുകയും ആ പ്രത്യേക ലെവൽ നിങ്ങൾ വ്യക്തമായും ഒരു കൈ കുറഞ്ഞ ഉൽപാദനച്ചെലവ് അനുവദിക്കുന്നു അതിനർത്ഥം നിങ്ങൾക്ക് വളരെയധികം നിയന്ത്രണം ഇല്ലെന്നാണ് പ്രത്യേക തലങ്ങളിലെ ശബ്ദ ഘടകം അതിനാൽ ഒരു വശത്ത് നിങ്ങൾ അത് അഭിസംബോധന ചെയ്യണം പ്രശ്നവും മറ്റൊരു വശത്തും നിങ്ങൾ ശബ്ദ ഘടകത്തിന്റെ നിയന്ത്രണം അഭിസംബോധന ചെയ്യണം അതിലൂടെ പ്രകടനം പാലിക്കൽ ഓരോ തവണയും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ട്രേഡിന്റെ കുറവാണ് ആ ഘട്ടത്തിൽ ഒരു ഗുണനിലവാരമുള്ള എഞ്ചിനീയർക്ക് ലഭിക്കേണ്ട പാരാമീറ്ററുകൾ ഡിസൈൻ സ്റ്റേജ് തന്നെ നിർദ്ദിഷ്ട ഉൽപ്പന്നം പാലിക്കുന്ന ഒരു നിശ്ചിത നിലവാര നിലവാരം പുലർത്തുന്നതിന് അതിനാൽ സമയത്ത് പാരാമീറ്റർ ഡിസൈൻ ഘട്ടം നിയന്ത്രിക്കുകയോ നീക്കം ചെയ്യുകയോ ചെയ്യാതെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നു വ്യതിയാനത്തിന്റെ കാരണങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷണങ്ങളുടെ ഡിസൈൻ ചെയ്യാൻ കഴിയും സിമുലേഷനും ഒപ്റ്റിമൈസേഷനും കൂടാതെ മറ്റ് പല സാങ്കേതികതകളും നിങ്ങൾക്ക് അറിയാം പാരാമീറ്ററുകൾ ശരിയാക്കുന്ന ഘട്ടം അതിനാൽ നിങ്ങൾക്ക് പാരാമീറ്ററുകളുടെ ശരിയായ തിരഞ്ഞെടുപ്പ് ലഭിക്കും പ്രത്യേക രൂപകൽപ്പന പാരാമീറ്ററുകൾ രൂപകൽപ്പന ചെയ്യുന്നതിനേക്കാൾ ഒരു പടി മുന്നിലാണ് ടോളറൻസ് ഡിസൈനിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് ഇത് സാധാരണയായി പാരാമീറ്ററുകൾ ഡിസൈൻ ഘട്ടത്തെ പിന്തുടരുന്നു അതിനാൽ നിങ്ങൾ അവതരിപ്പിക്കുകയാണെങ്കിൽ കർശനമായ സഹിഷ്ണുത ഭരണകൂടം മൊത്തത്തിലുള്ള ഗുണനിലവാരം മെച്ചപ്പെടുത്തും പ്രോസസ് സെലക്ഷനും ഒരു മര്യാദയോടെ ചെയ്യേണ്ടിവരും അങ്ങനെ അവ കർശനമായി സഹിക്കും പ്രത്യേക സവിശേഷത പ്രോസസ്സ് ലെവലിൽ റഫർ സമയം 0656 പാലിക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ ടാർഗെറ്റിന് വളരെ അടുത്തുള്ള ടാർഗെറ്റ് മൂല്യങ്ങൾക്ക് ചുറ്റുമുള്ള ടോളറൻസുകൾ തിരഞ്ഞെടുക്കുക മൂല്യങ്ങൾ അതിനാൽ പാരാമീറ്ററിൽ നിന്നുള്ള ഔട്ട്പുട്ടിൽ നാമമാത്രമായ വ്യത്യാസമുണ്ട് ആദ്യ ഘട്ടത്തിൽ രൂപകൽപ്പന ചെയ്തവയാണ് അത് പ്രത്യേകമായി അനുവദനീയമായി കണക്കാക്കാം ഗുണനിലവാരമുള്ള സിസ്റ്റം ഒപ്പം എന്നിരുന്നാലും ഗുണനിലവാരം നഷ്ടപ്പെടുന്നതിലൂടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നു ഈ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി വർദ്ധിച്ചുവരുന്ന ഉൽപ്പാദനം ഉണ്ടാകാം കർശനമായ നിലവാരം പുലർത്തുന്നതിന് പ്രക്രിയയിൽ അധികമായി അടിച്ചേൽപ്പിക്കുന്നതിനാൽ ചെലവ് പ്രക്രിയ അതിനാൽ സിസ്റ്റത്തിന്റെ മൂന്നാം ലെവലിൽ ടോളറൻസ് ഡിസൈൻ അടിസ്ഥാനപരമായി പിന്തുടരുന്നു രൂപകൽപ്പന പാരാമീറ്ററുകൾ രൂപകൽപ്പന ചെയ്യുകയും ഒടുവിൽ ഒരു ഗുണനിലവാരമുള്ള ഡിസൈനിന്റെ ഡിസൈൻ ഘട്ടം സഹിക്കുകയും ചെയ്യുന്നു പ്രക്രിയ അതിനാൽ ടാഗുച്ചി യഥാർത്ഥത്തിൽ എന്താണെന്ന് കണ്ടെത്താൻ ഗണിതശാസ്ത്രപരമായി ശ്രമിക്കാം ഗുണനിലവാര നഷ്ടം എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ പരമ്പരാഗതവും ഏതുമായ രണ്ട് ആശയങ്ങൾ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ടാഗുച്ചി ഡിസൈൻ എന്ന ആശയം അവതരിപ്പിച്ചതിനുശേഷം നിങ്ങൾക്ക് അത് കണ്ടെത്താനാകും അധിക സിസ്റ്റം ഗുണനിലവാര നിരീക്ഷണം നിങ്ങൾക്ക് കുറഞ്ഞ സവിശേഷത എന്ന് വിളിക്കപ്പെടുന്ന ഒന്ന് ഉണ്ടായിരുന്നു അപ്പർ സ്പെസിഫിക്കേഷൻ പരിധിയിലെ പരിധി ടാർഗെറ്റ് മൂല്യം എന്നിവ തമ്മിൽ എവിടെയെങ്കിലും ആയിരിക്കും LSL USL രണ്ടും തമ്മിലുള്ള ഈ പ്രത്യേക ശ്രേണിയിൽ വരിവരിയായിട്ടുള്ള ഏതൊരു ഉൽപ്പന്നവും ടോളറൻസ് പരിധി ഉൽപ്പന്നമായി സ്വീകരിക്കും ആദ്യമായി ടാഗുച്ചി നിർദ്ദേശിച്ചു ഇത് അനുരൂപമല്ലാത്തത് സംഭവിക്കുന്നത് വരെ കാത്തിരിക്കുന്നതുപോലെയാണെന്ന് നിങ്ങൾക്കറിയാം തിരുത്തൽ നടപടി സ്വീകരിച്ചു അതിനാൽ ഇത് ഒരു തരം തകർച്ച അറ്റകുറ്റപ്പണി പോലെയാണ് ഇതിനകം തന്നെ തകർന്ന ഉപകരണങ്ങളുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കറിയാവുന്ന കാരണം എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തണം അതിനാൽ നിങ്ങൾക്ക് കാത്തിരിക്കാനാവില്ല പ്രോസസ്സ് കൈയ്യിൽ നിന്നോ യുഎസ്എൽ അല്ലെങ്കിൽ എൽഎസ്എൽ സ്പെസിഫിക്കേഷനിൽ നിന്നോ പോകുന്നു അതിനാൽ ഏതെങ്കിലും ടാർഗെറ്റിൽ നിന്നുള്ള വ്യതിയാനം എങ്ങനെയെങ്കിലും ഒരുതരം സൂചകമായി മാറേണ്ടതുണ്ട് ഈ പ്രത്യേക കേസ് ഗുണനിലവാര നഷ്ടം എന്നറിയപ്പെടുന്നു ഈ സൂചകം വളരെ കടുപ്പമുള്ളതായിരിക്കും അതിനാൽ ടാർഗെറ്റിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമുണ്ടാകും നിങ്ങൾ ചെയ്യണം ചിത്രത്തിലേക്ക് വരുന്ന നഷ്ട ഘടകത്തിന്റെ വ്യതിയാനത്തിന്റെ ചതുരമായി റെക്കോർഡുചെയ്യുക പ്രക്രിയയുടെ ആദ്യ ഘട്ടത്തിൽ തന്നെ നിയന്ത്രണം വിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മുമ്പ് ഇത് ചെയ്യാനാകും പ്രോസസ്സ് നിയന്ത്രണാതീതമാണ് അതെ എന്ന് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും നഷ്ടത്തിന്റെ കണക്കുകൾ നോക്കിക്കൊണ്ട് പ്രക്രിയയുടെ നിയന്ത്രണം നിയന്ത്രണാതീതമാകും ടാർഗെറ്റിൽ നിന്നുള്ള വ്യതിയാനങ്ങൾ അങ്ങനെയാണ് മുഴുവൻ തത്ത്വചിന്തയും പ്രത്യേക മാട്രിക്സ് അല്ലെങ്കിൽ പ്രത്യേക നിലവാരമുള്ള ഫ്രെയിം വർക്ക് അതിനാൽ ഉദാഹരണത്തിന് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ഒരു ± 0 03 മൂല്യമുള്ള ഒരു ഷാഫ്റ്റ് വ്യാസത്തെക്കുറിച്ച് ഡിസൈൻ വശത്തിന്റെ അർത്ഥം ഷാഫ്റ്റിന് 0 997 മുതൽ 1 03 വരെ പോകാമെന്ന് പറയുന്നു എന്തിനാണ് അനുവദിക്കേണ്ടതെന്നതാണ് ചോദ്യം 1 01 ലെവലിൽ അല്ലെങ്കിൽ 0 998 ലെവലിൽ തുടർച്ചയായി എന്തെങ്കിലും ഉൽപാദിപ്പിക്കുന്നതിനുള്ള പ്രക്രിയ ഇപ്പോഴും മുകളിലെയും താഴത്തെയും സവിശേഷത പരിധിക്കുള്ളിലാണ് പക്ഷേ ഇത് തീർച്ചയായും സംഭാവന ചെയ്യണം ഈ നഷ്ടം സംഭവിക്കുന്ന ഒരു നഷ്ടത്തിന്റെ വെർച്വൽ സൂചകമായി സൂചിപ്പിക്കുന്ന ഒരു സൂചകത്തിലേക്ക് ചില എതിർ നടപടികളിലൂടെ ദാർശനികമായി കൈകാര്യം ചെയ്യുന്നു ചില തീരുമാനങ്ങൾ എടുക്കുന്നുbഭരണത്തിന്റെ അതിനാൽ അത് ഇപ്പോൾ പൂജ്യത്തിലേക്ക് മടങ്ങിവരുന്നു അതിനാൽ ടാഗുച്ചി നഷ്ടപ്പെടുന്നത് അതാണ്bഫംഗ്ഷൻ സംസാരിക്കുന്നു bഅതിനാൽ വ്യക്തമായും ടി ആണ് ടാർഗെറ്റ് y എന്നത് ഗുണനിലവാര സവിശേഷതകളുടെ മൂല്യമാണ് അവയുടെ ശരിക്കും നിങ്ങൾക്കറിയാവുന്ന ടാർഗെറ്റിൽ നിന്നുള്ള വ്യതിചലനമാണ് ടാർഗെറ്റിൽ നിന്നുള്ള വ്യതിയാനത്തിന്റെ ചതുരം നഷ്ടം സാധാരണയായി കറൻസി യൂണിറ്റുകളിൽ പരാമർശിക്കുന്നു അതിനാൽ ഓരോ ഡിസൈൻ സ്പെസിഫിക്കേഷനും പൊരുത്തക്കേട് എന്താണെന്ന് സൂചിപ്പിക്കുന്ന നഷ്ടമായി മാപ്പുചെയ്തു അവർ അതിൽ നിന്ന് എത്ര ദൂരെയാണ് പോകുന്നത് അതിനാൽ വഴി സജ്ജീകരിക്കാൻ കഴിയുമെങ്കിൽ ഡിസൈൻ സ്പെസിഫിക്കേഷനിൽ നിന്നും പ്രോസസ്സ് നിയന്ത്രണത്തിനായി നിങ്ങൾക്കറിയാവുന്ന പ്രത്യേക ടോളറൻസ് ശ്രേണി ഇതിനകം ലഭ്യമായ ശ്രേണി പ്രക്രിയയെ പുറത്തുപോകാൻ നിങ്ങളെ അനുവദിക്കരുത്nഡിസൈൻ സ്പെസിഫിക്കേഷനിൽ അർത്ഥമാക്കുന്ന പ്രക്രിയയെ സഹിഷ്ണുത കാണിക്കുന്നു അതിനാൽ അതിനാൽ ഏതാണ്ട് നൂറുശതമാനം സാഹചര്യങ്ങളിൽ പൂർണ്ണമാകും പ്രത്യേക ആട്രിബ്യൂട്ട് പാരാമീറ്ററുകളുടെ രൂപകൽപ്പന ആട്രിബ്യൂട്ട് ടോളറൻസുകളുമായുള്ള സ്ഥിരത ആട്രിബ്യൂട്ട് രൂപകൽപ്പന ചെയ്ത ഘട്ടം അതിനാൽ നിങ്ങൾ പരാമർശിച്ചത് അങ്ങനെയാണ് ഗുണനിലവാര നഷ്ടം അതിനാൽ ഈ നഷ്ടം യഥാർത്ഥത്തിൽ എന്തായിരിക്കുമെന്ന് കാണാൻ ഇവിടെ ചില സ്ഥിതിവിവര വിശകലനം നടത്തുക ഈ നഷ്ടം എങ്ങനെ നിയന്ത്രിക്കാം അല്ലെങ്കിൽ എങ്ങനെ കണക്കാക്കാം തുടർന്ന് ചിലരെ റിയലിസ്റ്റിക് ഉദാഹരണങ്ങളിലേക്ക് ശ്രമിച്ച പ്രക്രിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരിച്ചറിയുന്നതിന് നമ്മൾ ഈ നഷ്ട ഘടകം ഉപയോഗിക്കും അതിനാൽ വ്യക്തമായും y ഉള്ളിടത്ത് ഒരു പ്രക്രിയ ഉണ്ടെന്ന് അനുവദിക്കുന്നു ഗുണനിലവാര സവിശേഷതകൾ അതിനാൽ ശരാശരി ഗുണനിലവാര നഷ്ടം ഇത് പോലെ കണക്കാക്കാം എല്ലാ വ്യത്യസ്ത നഷ്ടങ്ങളുടെയും സംഗ്രഹം നഷ്ടത്തിന്റെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ n അത്തരത്തിലുള്ളവയെ അനുവദിക്കുന്നു ലഭിച്ച ഗുണനിലവാര സവിശേഷതകളുടെ പ്രതിനിധാന അളവ് അതിനാൽ ടാർഗെറ്റ് നഷ്ടത്തിൽ നിന്നും y1 അകലെ കാരണം മൊത്തത്തിലുള്ള ശരാശരി നഷ്ടം നഷ്ടമായിരിക്കും കാരണം y2 ടാർഗെറ്റിൽ നിന്ന് y3 ടാർഗെറ്റിൽ നിന്ന് അകലെ എന്നിങ്ങനെ പോകുന്നു y n ടാർഗെറ്റിൽ നിന്ന് അകലെയുള്ള സവിശേഷതകൾ ഇത് y1 മൈനസ് ടി യുടെ n തവണ k ആയി കണക്കാക്കാം സ്ക്വയർ പ്ലസ് y2 മൈനസ് ടി സ്ക്വയർ പ്ലസ് y3 മൈനസ് ടി സ്ക്വയർ പ്ലസും മറ്റും അങ്ങനെ y വരെ n മൈനസ് ടി സ്ക്വയർ Average quality loss 1nL L L 2 നമ്മൾക്ക് ഇത് വളരെ സൌ കര്യപ്രദമായ രീതിയിൽ പ്രതിനിധീകരിക്കാൻ കഴിയും കാരണം നമ്മൾക്ക് കഴിയുമെന്ന് നിങ്ങൾക്കറിയാം ഒരുപക്ഷേ ഇവിടെ ചില കൃത്രിമങ്ങൾ നടത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക അതിനാൽ നമ്മൾ മൂല്യങ്ങൾ ഒരുമിച്ച് ശേഖരിക്കുകയാണെങ്കിൽ പറയട്ടെ അതായത് അതിനാൽ നിങ്ങൾ ഇവിടെ കണക്കാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുമായി ബന്ധപ്പെട്ടതാണ് രൂപപ്പെടുത്തിയതും മൂല്യങ്ങളിൽ യാഥാർത്ഥ്യബോധമുള്ളതുമായ ഈ സമവാക്യം മുഴുവൻ കൈകാര്യം ചെയ്തു വിതരണത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന അത്തരം സ്ഥിതിവിവരക്കണക്കുകളുടെ പാരാമീറ്ററുകളുടെ പ്രാധാന്യം കണക്കിലെടുത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലെ mean like എന്നിവ പോലെ അതിനാൽ നമ്മൾ ഇപ്പോൾ എങ്ങനെ ചേർക്കുന്നുവെന്ന് നോക്കാം അതിനാൽ n ലെ n മൂല്യം എടുക്കുക വർഷം നമുക്ക് ആദ്യത്തെ പദത്തെ ശരാശരി ഗുണനിലവാര നഷ്ടം എന്ന് പ്രതിനിധീകരിക്കുന്നു നമ്മൾക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നതുപോലെ നിങ്ങൾക്ക് ശരാശരി അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട് സ്വഭാവ സവിശേഷതകൾ µ ഇത് യഥാർത്ഥത്തിൽ ഇതിൽ പ്രത്യേക വഴി അതിനാൽ ഞാൻ ഇവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചേർക്കുന്നതിലൂടെ കണക്കുകൂട്ടുന്നത് നിങ്ങൾക്കറിയാം മൈനസ് µ2 പ്ലസ് y1 y2 y3 പ്ലസ് എന്നിവയുടെ ഇരട്ടി µ തവണ കുറയ്ക്കുക y n വരെ ഇവിടെ n കൊണ്ട് ഹരിക്കുന്നു അതിനാൽ എനിക്ക് ഇത് എഴുതാൻ കഴിയുന്നത് y 1 ആണ് മൈനസ് plus2 പ്ലസ് വൈ 2 മൈനസ് plus2 പ്ലസ് വൈ എൻ മൈനസ് µ2 നെ പ്ലസ് ടി 2 മൈനസ് കൊണ്ട് വിഭജിച്ച് ടി വൈ 1 പ്ലസ് y2 പ്ലസ് y3 പ്ലസും മറ്റും yn വരെ n കൊണ്ട് ഹരിച്ചാൽ അങ്ങനെയാണ് എനിക്ക് എഴുതാൻ കഴിയുക ശരാശരി ഗുണനിലവാര നഷ്ടത്തിന്റെ മൂല്യം മുമ്പ് കമ്പ്യൂട്ടിംഗ് ഫോം ആണ് AQL k അതിനാൽ ഈ സിസ്റ്റം എങ്ങനെയാണ് ലളിതമായി വരുന്നത് നിങ്ങൾ ഇത് സ്ക്വയർ ബ്രാക്കറ്റായി തുറന്നാൽ നിങ്ങൾ ആകും left with ഉപയോഗിച്ച് അവശേഷിക്കുന്നു അതിനാൽ ഞാൻ പ്രധാനമായും ചെയ്യുന്നത് അതേ പദങ്ങൾ ഇവിടെ കുറയ്ക്കുകയും ചേർക്കുകയും ചെയ്യുക എന്നതാണ് ഇത് ഫലപ്രദമായി ഇവയെല്ലാം term term എന്ന പദത്തിന് മാത്രമേ കാരണമാകൂ അതിനാൽ എനിക്ക് കഴിയുമെന്ന് പറഞ്ഞു പൂർണ്ണ എക്സ്പ്രഷനിൽ ഉള്ളതുപോലെ ഇത് എഴുതുക അതിനാൽ അവസാനമായി എനിക്ക് അവശേഷിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ mu ശരിയാണ് ഇതും ഞാനും k with ഉപയോഗിച്ച് പ്രവർത്തനക്ഷമമാക്കും അതിനാൽ ഇത് k to ന് തുല്യമാണെന്ന് എനിക്ക് പറയാൻ കഴിയും അതിനാൽ ശരാശരി നിലവാരം എനിക്ക് എഴുതാൻ കഴിയുന്നത് അങ്ങനെയാണ് ഇത്തരത്തിലുള്ള നഷ്ടം എല്ലാ മൂല്യങ്ങളും ഒരുമിച്ച് പുറത്തെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് എക്യുഎൽ എഴുതാൻ കഴിയും കൂടുതൽ ഉചിതമായ രീതിയിൽ ഈ പ്രത്യേക മൂല്യം ഞാൻ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാമെന്ന് എനിക്ക് പറയാൻ കഴിയും ഇത് മറ്റൊന്നുമല്ല അതിനാൽ എനിക്ക് ഇത് 2 പോലെ കാണാനാകും അതിനാൽ ഞാൻ കരുതുന്നുവെന്ന് നമ്മൾ കരുതുന്നുവെങ്കിൽ ഇവിടെ σ2 അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ചതുരം മാത്രമായിരിക്കുമെന്ന് അറിയുക സ്ഥിതിവിവരക്കണക്ക് അതിനാൽ സിഗ്മ സ്ക്വയറിനെ n മൈനസ് 1 സിഗ്മ i കൊണ്ട് പ്രതിനിധീകരിക്കാമെന്ന് നിങ്ങൾക്കറിയാം 1 മുതൽ n yi മൈനസ് mu സ്ക്വയർ yi µ 2 വരെ വ്യത്യാസപ്പെടുന്നു അതിനാൽ എനിക്ക് ഇത് മുഴുവൻ എഴുതാൻ കഴിയും പദം n മൈനസ് 1 എന്ന് n σ2 കൊണ്ട് ഹരിക്കുന്നു അതിനാൽ എനിക്ക് ഈ പദം മുഴുവനും എഴുതാൻ കഴിയും അതിനാൽ വ്യക്തമായും എക്യുഎൽ അവസാന പദത്തിൽ നിന്ന് തുല്യമായ രണ്ടായി മാറുന്നു അങ്ങനെയാണ് നിങ്ങൾക്ക് ശരാശരി ഗുണനിലവാര നഷ്ടം രേഖപ്പെടുത്തുന്നത് ഇപ്പോൾ ഇത് ശരാശരി ആണെന്ന് നിങ്ങൾക്കറിയാമോ ചിലത് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ എന്നതാണ് ചോദ്യം ഗുണനിലവാരമുള്ള പാരാമീറ്ററുകൾ ചില ഗുണനിലവാര പാരാമീറ്ററുകൾ ഉണ്ട് അഭികാമ്യമല്ല ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ഉപകരണത്തിലെ വൈബ്രേഷനെക്കുറിച്ചും ശബ്ദത്തെക്കുറിച്ചും സംസാരിക്കുന്നുവെങ്കിൽ നമ്മൾ പറയാം നിങ്ങൾക്ക് അറിയാവുന്ന ഒരുതരം അഭികാമ്യമല്ലാത്ത പാരാമീറ്ററാണ് സമയം 2010 കാണുക നിങ്ങൾ സംസാരിക്കുന്ന പാരാമീറ്ററുകൾ ഒരു ഷാഫ്റ്റിന്റെ അളവുകൾ പറയട്ടെ അതിനാൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഒരു ഷാഫ്റ്റിന്റെ ഡൈമൻഷണൽ എത്ര എന്നിങ്ങനെയുള്ള ക്വാണ്ടിറ്റേറ്റീവ് പാരാമീറ്ററുകളെക്കുറിച്ച് സംസാരിക്കുന്നു ടാർഗെറ്റിൽ നിന്ന് അകലെ ശരാശരി ഗുണനിലവാര നഷ്ടം ഒരുപക്ഷേ അർത്ഥമാക്കുന്നു പക്ഷെ നമ്മൾ പറയുക ഭിന്നസംഖ്യ വസ്ത്രം എന്നിങ്ങനെയുള്ള അഭികാമ്യമല്ലാത്ത സ്വഭാവസവിശേഷതകളെക്കുറിച്ച് സംസാരിക്കുന്നു അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് നല്ലത് അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ടാർഗെറ്റിൽ നിന്നുള്ള വ്യതിയാനമായി ഇത് മനസ്സിലാക്കുക അതിനാൽ ഈ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കും സമയത്തിന്റെ താൽപ്പര്യം പക്ഷേ അടുത്ത പ്രഭാഷണത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മൾ ശ്രമിച്ച് കാണും ഈ എക്യുഎല്ലിനൊപ്പം എന്തെങ്കിലും അതുവഴി ഏത് തരത്തിലുള്ളതാണെന്ന് സന്ദർഭോചിതമായി മാറുന്നു നമ്മൾ ചർച്ച ചെയ്യുന്ന പാരാമീറ്റർ